മൾട്ടിവാരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ്സ് ഒപ്റ്റിമൈസേഷൻ ഫോർ ഡാറ്റാ സയൻസ് നെക്കുറിച്ചുള്ള ലെക്ച്ചർ സീരീസിലെ അവസാന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു അൺകൺസ്ട്രൈൻഡ് മൾട്ടിവാരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ ഇതുവരെ കണ്ടു ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളോടെ മൾട്ടിവേറിയറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളുള്ള മൾട്ടിവേരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങളിലേക്ക് നീങ്ങുന്നു ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളിലെ ചില പ്രധാന ആശയങ്ങൾ ഞാൻ വിശദീകരിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് ഡാറ്റാ സയൻസിൽ ഈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ദക്ഷിണേന്ത്യൻ റെസ്റ്റോറന്റുകളും മറ്റും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഡാറ്റയെക്കുറിച്ച് ഞാൻ മുമ്പത്തെ പ്രഭാഷണങ്ങളിലൊന്നിൽ സംസാരിച്ചത് ഓർക്കുക ഞാൻ പറഞ്ഞ ആ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ചിലതരം ഭക്ഷണശാലകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് പിന്നെ അത്തരം റെസ്റ്റോറന്റുകൾ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഒരു ക്ലാസിഫയർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ ഇതുപോലൊരു ലൈൻ ആയിരിക്കാം ഇതുപോലെയുള്ള ഒരു ക്ലാസിഫയർ തിരിച്ചറിയാൻ ഞങ്ങൾ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ലൈനിന്റെ ഒരു വശത്തും ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ലൈനിന്റെ മറുവശത്തും ആയിരിക്കണമെന്ന കൺസ്ട്രൈൻറ് ഏർപ്പെടുത്തണം ലീനിയർ അൾജിബ്രയിലെ ഹാഫ് സ്പേസുകളെയും ഹൈപ്പർ പ്ലെയിനിനെയും കുറിച്ചുള്ള നമ്മളുടെ ലെക്ച്ചറിൽ നിന്ന് ഈ സമവാക്യം ഇതുപോലെയാണെങ്കിൽ അത് ലീനിയർ സമവാക്യമാണെന്ന് നമുക്ക് അറിയാം തുടർന്ന് നോർമൽ ഈ ദിശയിലാണെങ്കിൽ ഈ ദിശയിൽ ഞാൻ ഈ പോയിന്റിന്റെ ഒരു മൂല്യം ഇതിലേക്ക് സബ്സ്ടിട്യൂറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 0 നേക്കാൾ വലുതോ തുല്യമോ ആണെന്നും ഈ വശത്ത് അത് 0 നേക്കാൾ കുറവോ തുല്യമോ ആണെന്നും പറയുന്നു അതിനാൽ ഇപ്പോൾ ഓരോ പോയിന്റിനും നമ്മൾ ലൈൻ സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൺസ്ട്രൈയ്ന്റു എഴുതുകയാണെങ്കിൽ അവ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളായി മാറുന്നത് നിങ്ങൾ കാണും അതിനാൽ പോയിന്റുകൾ ഉള്ളത്രയും ഇൻക്വളിറ്റി കൺസ്ട്രെന്റുകളും ഉണ്ടാകാം അതിനാൽ ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകൾ അടിച്ചേൽപ്പിക്കുന്നതിലും ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങളിലും നമ്മൾ താൽപ്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കാണുന്നു ഈ ആശയത്തിന്റെ കൂടുതൽ സങ്കീർണ്ണമായ പതിപ്പാണ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് വിളിക്കുന്ന ഡാറ്റാ സയൻസ് അൽഗോരിതങ്ങളിലൊന്നിൽ ഉപയോഗിക്കുന്നത് ഡാറ്റാ സയൻസ് ഫോർ എൻജിനീയേഴ്സിനെക്കുറിച്ചുള്ള ഈ ആദ്യ കോഴ്സിൽ നമ്മൾ ആ ടെക്നിക് പഠിക്കില്ലെങ്കിലും ഈ തരം ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങൾ ഒരു ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് വളരെ പ്രധാനമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന അതേ ഉദാഹരണത്തിലേക്ക് മടങ്ങാം അവിടെ നമുക്ക് ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് ഉണ്ടായിരുന്നു തുടർന്ന് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു തുടർന്ന് ആ ഇക്വാളിറ്റിയെ ഇനീക്വാളിറ്റിയാക്കി മാറ്റുക അതിനാൽ ഈ കേസിൽ കഴിഞ്ഞ ലെക്ച്ചറിലെ 12 എന്നത് ഇപ്പോൾ ഇതിൽ 12 ആയി മാറിയെന്ന് നമുക്ക് അനുമാനിക്കാം ഇത്തരത്തിലുള്ള പ്രോബ്ളങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അവബോധപൂർവ്വം മനസ്സിലാക്കാം മുമ്പത്തെ സന്ദർഭത്തിൽ നമ്മൾക്ക് ഒരു ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് ഉള്ളപ്പോൾ ക്യാൻഡിഡേറ്റ് സൊല്യൂഷൻ ആയി ഈ ലൈനിലെ ഏത് പോയിന്റിലും താൽപ്പര്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇവയെയെല്ലാം ഫീസിബിൾപോയിന്റുകൾ എന്ന് വിളിക്കുന്നു ഈ പോയിന്റുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം നൽകുന്ന പോയിന്റ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിച്ചു ഇപ്പോൾ എനിക്ക് ഈ ഇനീക്വാളിറ്റിയുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളമുണ്ടെങ്കിൽ ഇത് ഈ ചിത്രത്തിലെ തുല്യതയിൽ കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം നമ്മൾ പ്ലോട്ട് ചെയ്തത് ഒറിജിനൽ അൺകൺസ്ട്രൈൻഡ് ഒപ്റ്റിമം അഥവാ അൺകൺസ്ട്രൈൻഡ് മിനിമം ഇപ്പോഴും റെഡ് സ്റ്റാർ ആണ് ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കുകയും 12 എന്ന് പറയുകയും ചെയ്താൽ ഇത് അടിസ്ഥാനപരമായി 3 x1 2 x2 12 0 എന്ന് മാറ്റിയെഴുതാവുന്നതാണ് കൂടാതെ ഇത് x b 0 എന്ന ട്രാൻസ്പോസ് രൂപത്തിലുള്ളതാണെന്ന് ഓർക്കുക n എങ്ങനെ നിർവചിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് ഇത് ഒരു ഹാഫ് സ്പേസ് ആയിരിക്കും ഈ കേസിൽ ഈ സമവാക്യം പ്രതിനിധീകരിക്കുന്ന ഹാഫ് സ്പേസ് ആയി ഇത് മാറുന്നു അതിനാൽ ഇക്വാളിറ്റി കൺസ്ട്രയിന്റ്യും ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ്യും തമ്മിലുള്ള വ്യത്യാസം ഇനിപ്പറയുന്നതാണ് ഇക്വാളിറ്റി കൺസ്ട്രയിന്റ്യിൽ നിങ്ങൾ ഇത് ഒരു ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ്യായി മാറ്റുമ്പോൾ ഈ ലൈനിലെ എല്ലാ പോയിന്റുകളും ഫീസിബ്ൾ സൊല്യൂഷൻ ആയി നമ്മൾക്കുണ്ടായിരുന്നു അപ്പോൾ സംഭവിക്കുന്നത് ഈ രേഖ മുഴുവൻ നീട്ടിയതായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ ഹാഫ് സ്പെയ്സിലേക്കുള്ള ഏത് പോയിന്റും ഒരു ഫീസിബ്ൾ സൊല്യൂഷൻ ആയി മാറുന്നു കൂടാതെ ഈ ഹാഫ് സ്പെയ്സിലെ ഓരോ പോയിന്റും ഒരു ഫീസിബ്ൾ സൊല്യൂഷൻ ആയതിനാൽ അൺകൺസ്ട്രയിന്റ് മിനിമം ഒരു ഫീസിബ്ൾ പോയിന്റായി മാറുന്നു അതിനാൽ കൺസ്ട്രൈൻഡ് മിനിമം അൺകൺസ്ട്രൈൻഡ് മിനിമം എന്നിവ ഒന്നുതന്നെയാണ് ഇത് കാണാൻ രസകരമായ ഒരു കാര്യമാണ് ഈക്വാളിറ്റിയുടെ കാര്യത്തിൽ അൺകൺസ്ട്രൈൻഡ്തും കൺസ്ട്രൈൻഡ്തുമായ മിനിമം വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ ഇതിനെ ഒരു ഈക്വാളിറ്റിയക്കി മാറ്റിയപ്പോൾ കൺസ്ട്രൈൻഡ്തും അൺകൺസ്ട്രൈൻഡ്തുമായ മിനിമം ഒരേ പോയിന്റാണെന്ന് നമ്മൾ കാണുന്നു ഇനി ഞാൻ സൈൻ മറിച്ചിട്ട് ഇത് 12 ആണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ ലൈൻ മുഴുവൻ നീട്ടിയാൽ എന്ത് സംഭവിക്കും ഫീസിബിൾ റീജിയൻ ഇങ്ങോട്ടാണ് എവിടെയാണ് ഒപ്റ്റിമൽ കിടക്കുന്നതെന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു ഏറ്റവും മികച്ച സൊല്യൂഷൻ ഇവിടെയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഈ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ അകന്നുപോകുമ്പോൾ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ മൂല്യം നഷ്ടപ്പെടുന്നതായി നമ്മൾ കാണും മുമ്പത്തെപ്പോലെ ഈ ലൈനിലോ വശത്തോ ഉള്ള ഏതൊരു പോയിന്റും ഫീസിബിൾ പോയിന്റാണെന്നും ഈ ഇക്വാളിറ്റി സൈൻ കാരണം ഈ ലൈനിലെ ഏതൊരു പോയിന്റും ഫീസിബിൾ പോയിന്റാണെന്നും നമുക്കറിയാം ഇപ്പോൾ ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് പ്രോബ്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉന്നയിച്ച അതേ വാദങ്ങൾ നിരത്തുമ്പോൾ ഞാൻ എന്റെ ഒപ്റ്റിമലിറ്റി ഉപേക്ഷിക്കുന്നത് നമ്മൾ കാണും അതായത് ഒപ്റ്റിമൽ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും എപ്പോൾ സ്പെഷ്യൽ കോണ്ടൂർ ഈ രേഖയെ കൃത്യമായി ഒരു പോയിന്റ്ൽ സ്പർശിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു ഫീസിബിൾ പോയിന്റ് ലഭിക്കുന്നു അത് ഈ കൺസ്ട്രയ്ന്റിലെ ഇക്വാലിറ്റിയുടെ ഭാഗമാണ് അതിനാൽ ഇത് ജെനെറൽ കൺസ്ട്രയ്ന്റിനെ തൃപ്തിപ്പെടുത്തുന്നു എന്റെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ അതിന്റെ മൂല്യം എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട ഏറ്റവും മോശമായ കാര്യമാണിത് കൂടുതൽ എന്തെങ്കിലും ആവശ്യമില്ല കാരണം ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഞാൻ എന്റെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ മൂല്യം മോശമാക്കും എന്നിരുന്നാലും അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇതിനകം ഇവിടെ ഒരു ഫീസിബിൾ പോയിന്റ് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഇക്വാളിറ്റി കൺസ്ട്രൈൻഡ് കേസ് ഉപയോഗിച്ച് നമ്മൾ നേടിയ മിനിമത്തിന് തുല്യമായി കൺസ്ട്രൈൻഡ് മിനിമം മാറുന്നു അതിനാൽ ഏതെല്ലാം തരത്തിലുള്ള ഇനീക്വാളിറ്റിയെ ആശ്രയിച്ച് ഈ വ്യത്യസ്ത കാര്യങ്ങൾ സംഭവിക്കാമെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഒരു പൊതു ഗണിത ഫോർമുലേഷൻ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ ഇത് സാമാന്യവൽക്കരിക്കാൻ പോകുന്നു ജനറൽ കേസാണ് ഞാൻ കാണിക്കാൻ പോവുന്നത് ഈ കോഴ്സിനായി നമ്മൾ ഇത് പിന്നീട് ഏതെങ്കിലും ഡാറ്റാ സയൻസ് അൽഗോരിതത്തിൽ ഉപയോഗിച്ചേക്കില്ല എന്നിരുന്നാലും ഇത് s v m മുതലായ കൂടുതൽ സങ്കീർണ്ണമായ ഡാറ്റാ സയൻസ് അൽഗോരിതങ്ങൾക്കുള്ള അടിസ്ഥാന ആശയമായി മാറുന്നു അതിനാൽ ഇത് ശ്രദ്ധിക്കുകയും തുടർന്ന് ഇത് പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്യുന്നത് മൂല്യവത്താണ് ജനറൽ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ളത്തിന്ന് ഇക്വാളിറ്റി കൺസ്ട്രൈന്റും ഇനീക്വാളിറ്റി കൺസ്ട്രൈന്റും ഉണ്ടെന്ന് നമുക്ക് പറയാം എനിക്ക് ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ ഉണ്ട് എനിക്ക് ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളും ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകളും ഉണ്ട് വലത് വശത്ത് 0 ഉള്ള ഈ ഫോമിൽ നമുക്ക് എല്ലായ്പ്പോഴും ഇക്വാളിറ്റി കണ്ടീഷൻ എഴുതാൻ കഴിയുമെന്നത് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് വലതുവശത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇടത് വശത്തേക്ക് നീക്കി 0 നേടുന്നു അതുപോലെ മറ്റേതു കണ്ടിഷനും അത് അല്ലെങ്കിൽ ആയിരുന്നാലും എനിക്ക് എല്ലായ്പ്പോഴും ഈ രൂപത്തിൽ അത് നൽകാം ഒറിജിനൽ കണ്ടിഷൻ ഇതിനകം തന്നെ ഫോമിലാണെങ്കിൽ അത് ഇതിന് സമാനമാണ് അത് രൂപത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുക എന്നതാണ് അപ്പോൾ എനിക്ക് എന്ന കണ്ടിഷൻ ഉണ്ടാവുന്നു ഇപ്പോൾ ഞാൻ ഇതിനെ എന്റെ കൺസ്ട്രയിന്റ് എന്ന് വിളിക്കുന്നു എനിക്ക് ഇത് വീണ്ടും ഈ രൂപത്തിൽ നൽകാം ഇപ്പോൾ ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമായ ഫോർമുലേഷനായി മാറുന്നു അടുത്ത സ്ലൈഡിൽ ഇതിനുള്ള കണ്ടിഷനുകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു അവിടെയുള്ള എല്ലാ ഗണിതത്തിലും ഇത് അൽപ്പം സങ്കീർണ്ണമായി കാണപ്പെടും അടുത്ത സ്ലൈഡിലെ കണ്ടിഷനുകൾ ഞാൻ ലളിതമായി വായിക്കാൻ പോകുന്നു തുടർന്ന് നമ്മൾ ഒരു പ്രത്യേക ഉദാഹരണം എടുത്ത് കണ്ടിഷനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കും ഇക്വാളിറ്റി ഇനീക്വാളിറ്റി കണ്ടിഷനുകളുള്ള മൾട്ടിവാരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളത്തിനുള്ള കണ്ടിഷനുകൾ ഇവയാണ് നമുക്ക് ഇത് ശ്രദ്ധാപൂർവ്വം നോക്കാം ഇക്വാളിറ്റി കണ്ടിഷനുകൾ മാത്രമുള്ളപ്പോൾ എക്സ്പ്രെശ്ശന്റെ ഈ ഭാഗം നമ്മൾക്ക് ഉണ്ടായിരുന്നു അതിൽ ഓരോ ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾക്കും ∇ λ ടൈംസ് ∇h എന്ന ലീനിയർ സം നമ്മൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുക ഇപ്പോൾ നിങ്ങൾക്കും ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ ഉള്ളപ്പോൾ ഈ സമവാക്യത്തിന് എന്ത് സംഭവിക്കും എല്ലാ ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾക്കും നമ്മൾ ഒരു പരാമീറ്റർ ചേർത്തതുപോലെ ഓരോ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകൾക്കും നമ്മൾ ഒരു പാരാമീറ്റർ ചേർക്കുന്നു അതിനാൽ m ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ ഉണ്ടെങ്കിൽ m പാരാമീറ്ററുകൾ ഉണ്ടാകും സാധാരണ ഒപ്റ്റിമൈസേഷൻ പുസ്തകങ്ങളിലും സാഹിത്യത്തിലും ആളുകൾ ഈ കൺസ്ട്രൈന്റുകളിൽ ഓരോന്നിനും ഒരു സ്കെയിലർ ഗുണിതമായി λ ഉപയോഗിക്കുന്നു അതിനാൽ l ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ l λ ഉണ്ടാകും ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകൾക്കായി ആളുകൾ μ എന്ന നാമകരണം ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് m μ കൾ ഉണ്ടെങ്കിൽ m ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾക്ക് അനുയോജ്യമായ m μ കൾ ഉണ്ടാകും അതിനാൽ ഇക്വാളിറ്റി കേസിലെയും ഇനീക്വാളിറ്റി കേസിലെയും കണ്ടിഷനുകൾ തമ്മിലുള്ള വ്യത്യാസം ഈ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകളിൽ ഓരോന്നിനും നിങ്ങൾ μ തവണ δ g ന്റെ കൂടുതൽ രേഖീയ കോമ്പിനേഷനുകൾ ചേർക്കുന്നു എന്നതാണ് ഇത് നോക്കൂ ഇത് ഇതിന്റെ അതേ രൂപമാണ് ഞാൻ ഇവിടെ λ ഉപയോഗിച്ചു അവിടെ μ ഉം ഉപയോഗിച്ചു എന്നതൊഴികെ പക്ഷേ ഞാൻ ഒരു ∇ ഉം ∇ ഉം എടുക്കുന്നു മുമ്പത്തെ കേസിലെ കണ്ടീഷൻകളുടെ ഭാഗമായി ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നുവോ അതുപോലെ തന്നെ ഈ ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളെല്ലാം തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും ഇപ്പോൾ λ എന്നത് ഒരു റിയൽ നമ്പർ ആണ് അതിനാൽ ഈ ഇക്വാളിറ്റി കണ്ടീഷൻ ഒപ്റ്റിമൽ പോയിന്റ് തൃപ്തിപ്പെടുത്താൻ എത്ര ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളുണ്ടോ അത്രയും റിയൽ നമ്പർകളും എനിക്ക് ആവശ്യമുണ്ട് ഒപ്റ്റിമൽ പോയിന്റ് തൃപ്തിപ്പെടാൻ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകളും ആവശ്യമാണ് അതിനാൽ ഒപ്റ്റിമൽ പോയിന്റ് ഫീസിബിൾ റീജിയനിലാണെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇപ്പോൾ ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് കണ്ടീഷനും ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ് കണ്ടീഷനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസങ്ങൾ കാണിക്കുന്നു നമ്മൾക്ക് അധിക കണ്ടീഷനുകളും ഉണ്ട് അവ ഈ രൂപത്തിലുള്ളതാണ് ഇവയെ കോംപ്ലിമെന്ററി സ്ലാക്ക്നെസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു ഇത് പറയുന്നത് നിങ്ങൾ ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റെയും അനുബന്ധമായ μi യുടെയും ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കണം അടിസ്ഥാനപരമായി അത് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ μj 0 ആണ് ഈ സാഹചര്യത്തിൽ ഇത് സ്വതന്ത്രമാണ് 0 ആകത്തക്ക വിധത്തിലുള്ള ഏതു മൂല്യവുമാകാം അല്ലെങ്കിൽ ഇത് 0 ആണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു μ കണക്കാക്കണം ഞാൻ കണക്കാക്കുന്ന μ അത് ഒരു പോസിറ്റീവ് സംഖ്യ അഥവാ 0 ആയിരിക്കണം അതിനാൽ നിങ്ങളുടെ പക്കലുള്ള ഒപ്റ്റിമൽ പോയിന്റ് ഉറപ്പാക്കാൻ ഈ കണ്ടീഷനുണ്ട് ഒപ്റ്റിമൽ പോയിന്റിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയില്ല അതാണ് ഈ കണ്ടീഷനുണ്ടാകാനുള്ള കാരണം നിങ്ങൾ ആദ്യമായി ഒപ്റ്റിമൈസേഷനെക്കുറിച്ചുള്ള കോഴ്സ് കാണുകയാണെങ്കിൽ ഈ കൺസ്ട്രൈന്റുകൾ ഉടനടി മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി വളരെ എളുപ്പമല്ലെന്ന് ഓർക്കുക എന്നിരുന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്ലൈഡിൽ ഒരു ഉദാഹരണം എടുത്ത് ഈ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കും n വേരിയബിളുകളിൽ അൺകൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറയാൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓർമിക്കേണ്ടുന്ന ഒരു കാര്യം ഒപ്റ്റിമൽ കണ്ടീഷനുകളിൽ സിസ്റ്റം സോൾവ് ചെയ്യാൻ കഴിയുന്നത്ര സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടോ എന്ന് നോക്കുക എന്നതാണ് ഞാൻ എപ്പോഴും അത് നോക്കാറുണ്ട് വ്യക്തമായും അൺകൺസ്ട്രൈൻഡ് കേസിൽ നിങ്ങൾക്ക് n സമവാക്യങ്ങളും n വേരിയബിളുകളും ഉണ്ട് എല്ലാ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾക്കും നിങ്ങൾ ഒരു അധിക പാരാമീറ്റർ ചേർക്കണം എന്ന് ഇക്വാളിറ്റി കൺസ്ട്രൈൻഡ് കേസിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു എന്നിരുന്നാലും നിങ്ങൾക്ക് മതിയായ സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടായിരിക്കും കാരണം ഈ രൂപത്തിലുള്ള ആദ്യ കണ്ടീഷൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് n സമവാക്യങ്ങൾ ലഭിക്കും കൂടാതെ ലാംഡകൾ ഉള്ളതുപോലെ തൃപ്തിപ്പെടേണ്ട ഇക്വാളിറ്റി കൺസ്ട്രൈൻഡുകളും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ അതും ശരിയായി പ്രവർത്തിക്കുന്നു ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുമോ എന്ന് നോക്കാം ഇത് സോൾവ് ചെയ്യുന്നുക്കുന്നതിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് KKT കണ്ടിഷനുകൾ എന്ന് വിളിക്കുന്നത് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ച കണ്ടീഷൻകളെ KKT കണ്ടിഷനുകൾ എന്ന് വിളിക്കുന്നു μ 0 ആയിരിക്കാം അല്ലെങ്കിൽ z 0 ആയിരിക്കാം എന്ന് പറയുന്ന കോംപ്ലിമെന്ററി സ്ലാക്ക്നെസ് കണ്ടിഷനുകൾ കണ്ടിഷനുകൾ കാരണം ഇനീക്വാളിറ്റി കേസിൽ KKT കണ്ടിഷനുകൾ നേരിട്ട് സോൾവ് ചെയ്യുന്നുക്കുന്നത് എളുപ്പമല്ല അതിനാൽ ഏത് 0 ആണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ഇതൊരു കോമ്പിനേറ്റോറിയൽ പ്രോബ്ളമാക്കുന്നു പൊതുവെ KKT കണ്ടിഷനുകൾ സാധാരണയായി നമ്മുടെ പക്കലുള്ള ഒരു സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഒപ്റ്റിമൈസേഷൻ അൽഗോരിതങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് കൂടാതെ പെനാൽറ്റി രീതികൾ ആക്റ്റീവ് സെറ്റ് രീതികൾ എന്നിങ്ങനെയുള്ള രീതികളുണ്ട് ആ രീതികളെക്കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നില്ല എന്നിരുന്നാലും ഒരു വിശകലന കേസിൽ സൊല്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇതുവരെ വിവരിച്ച എല്ലാ ആശയങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ന്യൂമെറിക്കൽ എക്സാംപിൾ നോക്കാം ഈ പ്രത്യേക കേസിൽ ഇത് ഒരു മൾട്ടിവാരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണ് ഇതിനെ യഥാർത്ഥത്തിൽ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നു കാരണം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആണ് കൺസ്ട്രൈന്റുകൾ ലീനിയർ ആണ് അത്തരം പ്രോബ്ലങ്ങളെ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലങ്ങൾ എന്ന് വിളിക്കുന്നു നിരവധി ഉദാഹരണങ്ങളിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന അതേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോമിന്റെ കൺസ്ട്രൈന്റുകൾ നമുക്കുണ്ടെന്ന് അനുമാനിക്കാം ആദ്യത്തെ കൺസ്ട്രൈന്റ് 3 x1 2 x2 12 ആണെന്ന് നമുക്ക് അനുമാനിക്കാം രണ്ടാമത്തെ കൺസ്ട്രൈന്റ് 2 x1 5 x2 10 ആണ് മൂന്നാമത്തെ കൺസ്ട്രൈന്റ് x1 1 ആണ് ഇപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരു കൺസ്ട്രൈന്റിലേക്ക് കൺവെർട്ട് ചെയ്യണം അത് എങ്ങനെ സംഭവിക്കുമെന്ന് അടുത്ത സ്ലൈഡിൽ കാണാം ഇനി നമുക്ക് ഇത് ചിത്രപരമായി നോക്കാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മൂല്യം നിങ്ങൾ കാണുന്ന സ്ക്രീനിന്റെ തലത്തിൽ നിന്ന് വരുന്ന z ദിശയിലാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ഓർക്കുക അതിനാൽ അതിന്റെ പ്രതിനിധാനം നമ്മൾ ഇവിടെ കാണുന്ന ഈ കോണ്ടൂറുകളാണ് അവ കോൺസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ കോണ്ടൂറുകളാണ് അതിനാൽ ഈ ചിത്രം ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ നുകളോടും കൺസ്ട്രൈന്റുകളോടും എങ്ങനെഎങ്ങനെ വിവരിക്കുന്നുവെന്ന് കാണാനും വിശദീകരിക്കാനും ഞാൻ ശ്രമിക്കുന്നു അതിനാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഈ സ്ഥിരമായ മൂല്യത്തിന്റെ കോണ്ടൂറാണ് അതിനാൽ ഞാൻ ഇതിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഒന്നുതന്നെയാണ് നമ്മൾ ഇത് നിരവധി തവണ ആവർത്തിച്ചു ഇപ്പോൾ ഈ x1 x2 പ്ലൈനിൽ ഈ കൺസ്ട്രൈന്റുകൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നോക്കാം എനിക്ക് ഈ സമവാക്യം ഉണ്ട് അത് ഒരു ലൈനിന്റെ സമവാക്യമാണ് 12 ആയ ആദ്യ കൺസ്ട്രൈന്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലൈനിന്റെ ഈ വശത്തേക്കുള്ള ഏത് പോയിന്റും ഫീസിബിൾ പോയിന്റാണ് ഇവിടെ ഈ കൺസ്ട്രൈന്റ് നോക്കുമ്പോൾ ലൈനിന്റെ സമവാക്യം 2 x1 5 x2 10 ആണ് എനിക്ക് 10 നേക്കാൾ വലുത് എന്തെങ്കിലും ഉള്ളപ്പോൾ ഈ റീജിയൻ ഒരു ഫീസിബിൾ റീജിയൻ ആണ് ഇതാണ് x1 1 എന്ന ലൈൻ x1 1 എന്നത് ഈ റീജിയനുമായിരിക്കും നിങ്ങൾ ഈ റീജിയനുകളെല്ലാം ഒരുമിച്ച് ചേർത്താൽ ഒരേയൊരു ഫീസിബിൾ റീജിയൻ ഇവിടെ ബ്രൌൺ നിറത്തിൽ ഷേഡുള്ളതാണ് അതിനാൽ നിങ്ങൾ ഈ റീജിയൻലെ ഏതെങ്കിലും പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തും കാരണം അത് ഈ ലൈനിന്റെ ഈ ഭാഗത്താണ് അത് രണ്ടാമത്തെ കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തും കാരണം അത് ലൈനിന്റെ വശത്താണ് അത് മൂന്നാമത്തെ കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തും കാരണം അത് ലൈനിന്റെ ഈ ഭാഗത്താണ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും പോയിന്റ് എടുത്താൽ നിങ്ങൾക്ക് ഫീസിബിൾ ആകില്ലെന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇവിടെ ഒരു പോയിന്റ് കൺസ്ട്രൈൻറ് 1 ലംഘിക്കും എന്നാൽ 2 3 കൺസ്ട്രൈൻറ്കളിൽ നിന്ന് ഇത് സാധ്യമാകും എന്നിരുന്നാലും എല്ലാ കൺസ്ട്രൈൻറ്കളും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ സമാനമായി നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അത് കൺസ്ട്രൈന്റ് 1 ഉം 3 ഉം തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ അത് കൺസ്ട്രൈൻറ് 2 ലംഘിക്കും ഇപ്പോൾ ഒപ്റ്റിമൽ പോയിന്റ് ഇവിടെ കിടക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ കുറച്ച് സ്ലൈഡുകളിൽ നമ്മൾ വിവരിച്ച കണ്ടീഷൻകളിലൂടെ ഈ മൂല്യം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും അതിനാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് നമ്മൾ ഒരു ലഗ്രാൻജിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് ചെയ്യുന്നത് അത് അടിസ്ഥാനപരമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കണ്ടിഷനുകളിലേക്ക് ചുരുങ്ങും ഞാൻ ഇത് വേഗത്തിൽ വിശദീകരിക്കും നമ്മൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എടുക്കുന്നു തുടർന്ന് ഇവിടെ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകളൊന്നുമില്ല ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകൾ മാത്രമേയുള്ളൂ ഈ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകളിൽ ഓരോന്നിനും നമ്മൾക്ക് ഒരു പാരാമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഇത് ഇതിനകം തന്നെ നമുക്ക് ആസ്വാദ്യകരമായ ഒരു രൂപത്തിലാണ് അത് രൂപത്തിലാണ് ഞാൻ ഇത് μ1 ടൈംസ് 3x1 2x2 12 എന്ന് ലളിതമായി എഴുതുന്നു 3x1 2x2 12 എന്നത് രൂപത്തിലാണ് രണ്ടാമത്തെ സമവാക്യം നോക്കുമ്പോൾ ഇത് രൂപത്തിലാക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് 10 2 x1 5 x2 0 എന്നാണ് ഞാൻ പറഞ്ഞത് അതിനാൽ ഞാൻ ഇത് ഇവിടെ ഇട്ടാൽ ഇത് രൂപത്തിലായിരിക്കും തുടർന്ന് എനിക്ക് ഇതിനോട് യോജിക്കുന്ന ഈ μ2 ന് അനുയോജ്യമായ μ1 ഉണ്ടെങ്കിൽ എനിക്ക് μ3 ഉണ്ട് എനിക്ക് x1 1 0 ഉണ്ട് അതിനാൽ നിങ്ങൾ ആ പദം ഇവിടെ കാണുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് x1 x2 എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്നതാണ് ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് അൺകൺസ്ട്രൈൻഡ് കേസ് മുതലായവയുള്ള കേസിനായി നമ്മൾ സംസാരിച്ച ആദ്യത്തെ 2 കണ്ടിഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും 2 ഡിസിഷൻ വേരിയബിളുകൾക്കുള്ള 2 സമവാക്യങ്ങൾ നിങ്ങൾ ഈ മുഴുവൻ പദപ്രയോഗവും ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ പദത്തിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തുവരുന്നത് 4x1 ഇത് x2 ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് x1 നെ സംബന്ധിച്ചുള്ള ഡിഫറൻഷ്യൽ 0 ആയി മാറും x1 മായി ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 3 μ1 x1 ഉണ്ടാകും അതിനാൽ അടിസ്ഥാനപരമായി ഈ സമവാക്യം നിങ്ങൾക്കുണ്ട് തുടർന്ന് x2 നെ സംബന്ധിച്ച് ഞാൻ അതേ പദപ്രയോഗം എക്സ്പ്രെഷൻ ഡിഫറെൻഷ്യറ്റ് ചെയ്യുന്നു എനിക്ക് ഇവിടെ നിന്ന് 8 x2 ലഭിക്കുന്നു രണ്ടാമത്തെ ടേമിൽ നിന്ന് എനിക്ക് 2 μ1 ലഭിക്കുന്നു എനിക്ക് ഈ പദത്തിൽ നിന്ന് 5 μ2 ലഭിക്കുന്നു ഈ പദത്തിൽ നിന്ന് എനിക്ക് ഒന്നും ലഭിക്കുന്നില്ല കാരണം ഇത് x1 ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് അതിനാൽ എനിക്ക് ഇത് 0 ന് തുല്യമാണ് ഇത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് കേസിൽ നമ്മൾ സംസാരിച്ച അതേ രൂപത്തിലാണെന്ന് കാണാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക ∇fλi∇ ആയിരിക്കണം ഒപ്പം ഇനീക്വാളിറ്റിയുടെ കാര്യത്തിൽ gi എന്നത് ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളാണെങ്കിൽ μi∇ ചേർക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ കൺസ്ട്രൈന്റ്ൽ നിന്ന് ഈ 2 സമവാക്യങ്ങൾ ലഭിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ 2 സമവാക്യങ്ങളുണ്ട് കാരണം ∇x ന്റെ വലുപ്പം 2x1 h 2x1 ആണ് കാരണം 2 ഡിസിഷൻ വേരിയബിളുകൾ h ഉം 2x1 ആണ് ഇവ സ്കെയിലറുകളാണ് ഇത് ഒരു ലീനിയർ വെയ്റ്റഡ് തുകയാണ് നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ എനിക്ക് 2 സമവാക്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എന്നിരുന്നാലും എനിക്ക് കണക്കാക്കേണ്ട 5 വേരിയബിളുകൾ ഉണ്ട് എനിക്ക് x1 നുള്ള ഒരു മൂല്യം കണക്കാക്കേണ്ടതുണ്ട് എനിക്ക് x2 നുള്ള ഒരു മൂല്യം കണക്കാക്കേണ്ടതുണ്ട് തുടർന്ന് എനിക്ക് μ1 μ2 μ3 എന്നിവ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ തിരികെ പോയി കോംപ്ലെമെന്ററി സ്ലാക്ക്നെസ് കണ്ടിഷനുകൾ ചേർക്കുക ഇതുകൂടാതെ നമുക്ക് ലഭിക്കുന്ന ഏത് സൊല്യൂഷനും 2 ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ലഭിക്കുന്ന ഏത് സൊല്യൂഷൻ ആയാലും 3x1 2x2 12 0 10 2 x 5 x2 എന്നിവ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം അതിനാൽ ഈ 2 ഉം സാധുതയുള്ളതായിരിക്കണം പക്ഷേ ഇവ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളാണ് ഈ വേരിയബിളുകൾ സോൾവ് ചെയ്തുകഴിഞ്ഞാൽ ഈ കണ്ടിഷനുകൾ തൃപ്തികരമാണോ അല്ലയോ എന്ന് നമ്മൾ ഇപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ കോംപ്ലിമെന്ററി സ്ലാക്ക്നെസ് കണ്ടിഷനുകൾലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് μ ടൈംസ് g എന്നത് 0 ആണെന്ന് നമ്മൾ കണ്ടു ഇത് ആദ്യത്തെ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുമായി പൊരുത്തപ്പെടുന്നു ഇത് രണ്ടാമത്തെ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുമായി പൊരുത്തപ്പെടുന്നു ഇത് മൂന്നാമത്തെ ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകമായി പൊരുത്തപ്പെടുന്നു നമുക്കു ഈ μi 0 ഉണ്ടായിരിക്കണം അതിനാൽ ഒപ്റ്റിമൽ പോയിന്റിനായി ഈ കണ്ടീഷൻകളെല്ലാം തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ചിലത് ശ്രദ്ധിക്കുന്നത് രസകരമാണ് കാരണം നമുക്ക് ഇത് ഒരു ഉദാഹരണമായി എടുക്കാം നമ്മൾക്ക് ഇതിനകം 2 സമവാക്യങ്ങളുണ്ട് 2 സമവാക്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചു μ1 μ2 μ3 എന്നിവ കണക്കാക്കാൻ ഞാൻ മറ്റൊരു 3 സമവാക്യങ്ങൾക്കായി തിരയുകയാണ് അത് മൊത്തം 5 സമവാക്യങ്ങളും 5 വേരിയബിളുകളും ആയിരിക്കും ഇത് 0 ആകണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമവാക്യത്തിൽ μ1 0 ആണെന്നോ അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് 0 ആണെന്നോ പറയാം അതിനാൽ നമുക്ക് ഒരു സാധ്യത പറയാം ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് 0 അല്ല എങ്കിൽ ഈ സാഹചര്യത്തിൽ μ10 ആയിരിക്കണം അതിനാൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം ബ്രാക്കറ്റിൽ ഉള്ളത് 0 അല്ല എന്ന് പറഞ്ഞാൽ അത് യാന്ത്രികമായി എനിക്ക് μ1 ന്റെ മൂല്യം നൽകുന്നു അതിനാൽ ഇവിടെയുള്ള 5 വേരിയബിളുകളിൽ ഒന്ന് ഞാൻ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉള്ളത് 0 അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ μ 2 0 ആയിരിക്കണം ഇവിടെ ഉള്ളത് 0 അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ μ3 0 അല്ലാത്തത് 0 ആയിരിക്കണം അപ്പോൾ ഞാൻ ഇതിനകം μ1 μ2 μ3 എന്നതിനായുള്ള മൂല്യങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ മൂല്യങ്ങൾ ഈ സമവാക്യത്തിലേക്ക് തിരികെ നൽകാം എനിക്ക് x1 ഉം x2 ഉം കണക്കാക്കാൻ കഴിയുന്ന 2 സമവാക്യങ്ങളുണ്ട് ഇത് ഒരു ഓപ്ഷനാണ് മുമ്പത്തെ സ്ലൈഡുകളിലൊന്നിൽ ഇത് ഒരു കോമ്പിനേറ്റോറിയൽ പ്രോബ്ലം ആയി മാറുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു കാരണം ഇത് 0 ലേക്ക് പോകുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഈ പദം 0 ലേക്ക് പോകുന്നു ഇത് യഥാർത്ഥത്തിൽ പൂജ്യമല്ല ഇത് പൂജ്യമല്ല നമുക്ക് അനുമാനിക്കാം നമുക്ക് വേണ്ടത്ര സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടോ ആ കേസിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഈ കേസിൽ നമുക്ക് 1 സമവാക്യം ഉണ്ടാകും 2 സമവാക്യങ്ങൾ മൂന്നാമത്തെ സമവാക്യം μ20 ആയിരിക്കും കാരണം ഇത് 0 അല്ല എന്ന് നമ്മൾ അനുമാനിച്ചതിനാൽ നാലാമത്തെ സമവാക്യം μ3 ആയിരിക്കണം കാരണം ഇത് 0 അല്ലെന്ന് നമ്മൾ അനുമാനിച്ചു 0 ഇപ്പോൾ അഞ്ചാമത്തെ സമവാക്യം ബ്രാക്കറ്റിനുള്ളിലെ പദം 0 ആണെന്ന് നമ്മൾ അനുമാനിച്ച ഒന്നായി മാറുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ എനിക്ക് വീണ്ടും 1 2 3 ഉണ്ട് തുടർന്ന് μ2 0 μ3 0 ആയി 5 വേരിയബിളുകളിൽ 5 സമവാക്യങ്ങൾ ഉദാഹരണത്തിന് ഇതും ഇതും 0 ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം ഈ സാഹചര്യത്തിൽ ഞാൻ μ2 μ1 എന്നിവ കണക്കാക്കണം തുടർന്ന് ഇത് 0 അല്ല μ3 0 ആണെന്ന് പറയാം എന്നാൽ ആ സാഹചര്യത്തിലും നിങ്ങൾക്ക് 1 സമവാക്യം 2 സമവാക്യം ഉണ്ടാകും അഞ്ചാമത്തെ സമവാക്യം 0 എന്നത് 1 സമവാക്യവും നാലാമത്തെ സമവാക്യം 0 എന്നത് 1 സമവാക്യവുമാണ് അതിനാൽ എനിക്ക് വീണ്ടും 5 സമവാക്യങ്ങളും 5 വേരിയബിളുകളും ഉണ്ട് അതിനാൽ ഈ സമവാക്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് അനുമാനം ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് മതിയായ സമവാക്യങ്ങളും മതിയായ വേരിയബിളുകളും ഉണ്ടായിരിക്കും എന്നിരുന്നാലും അത്തരം ചില ചോയ്സുകൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ഇവിടെത്തന്നെ ഇത് വീണ്ടും പ്ലഗ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് ഇത് തൃപ്തിപ്പെടുത്തിയേക്കില്ല അതിനാൽ ആ സാഹചര്യത്തിൽ ഒപ്റ്റിമൈസേഷൻ വീക്ഷണകോണിൽ നിന്ന് അത് നമ്മൾക്ക് ഫീസിബിആ യ ഒരു ഓപ്ഷനല്ല ചില സന്ദർഭങ്ങളിൽ ഇത് തൃപ്തികരമായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമവാക്യങ്ങളിൽ നിന്ന് നിങ്ങൾ കണക്കാക്കുന്ന μ പോസിറ്റീവ് ആയിരിക്കില്ല അതിനാൽ ഇത് നെഗറ്റീവ് μ ലഭിച്ചേക്കാം ഈ സാഹചര്യത്തിൽ ഇത് ഒരു മികച്ച സൊല്യൂഷൻ അല്ല അതിനാൽ ഈ ഉദാഹരണത്തിനായി ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് അടുത്ത ലൈനിലെ ടേബിൾ മനസ്സിലാക്കാൻ കഴിയും ഒരു ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് കൃത്യമായി തൃപ്തികരമാണെന്ന് ഞാൻ അനുമാനിക്കുമ്പോഴെല്ലാം അതായത് ഞാൻ 3 x1 2 x2 12 0 എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു കാരണം പോയിന്റ് ഇതിനകം കൺസ്ട്രൈന്റിൽ ആയതിനാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ലൈനിൽ ഇല്ല അത് അടിസ്ഥാനപരമായി ആണ് അതിനാൽ അത് ഇനാക്റ്റീവ് ആണെന്ന് ഞാൻ പറയും അതിനാൽ എല്ലാ കൺസ്ട്രൈന്റുകൾക്കും അത് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ ഈ കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെങ്കിൽ 3 x1 2 x2 12 എന്നത് 0 ആണ് കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെങ്കിൽ 2 x1 5 x2 10 0 ഈ കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെങ്കിൽ x1 1 നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്ന ഉദാഹരണത്തിൽ 3 ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകളുണ്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ് കൃത്യമായി തൃപ്തിപ്പെട്ടാൽ അത് ഒരു ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് ആയിമാറുന്നുവെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് കൺസ്ട്രൈന്റ് എന്നും കൃത്യമായി തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ അതിനെ ഒരു ഇനാക്റ്റീവ് കൺസ്ട്രൈന്റ് എന്നും വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് 3 ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകങ്ളുണ്ട് ഈ ഓരോ കൺസ്ട്രൈന്റുകളും ഒന്നുകിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആകാം ഈ കൺസ്ട്രൈന്റ്കളിൽ ഓരോന്നിനും 2 സാധ്യതകൾ ഉണ്ട് നമുക്ക് 3 കൺസ്ട്രൈന്റുകൾ ഉള്ളതിനാൽ 238 സാധ്യതകൾ ഇവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ ഉള്ളപ്പോൾ ഈ സമീപനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ പട്ടികപ്പെടുത്താൻ പോകുന്നു അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന് പിന്നിലെ ആശയങ്ങൾ വിശദീകരിക്കാൻ ഈ പട്ടികയിൽ നിന്ന് രണ്ട് റോകൾ പറയട്ടെ അടുത്ത സ്ലൈഡിൽ ഈ ഓരോ കേസിന്റെയും അർത്ഥമെന്താണെന്ന് ഗ്രാഫിക്കായി കാണാൻ പോകുന്നു നമുക്ക് ഉദാഹരണമായി ആദ്യ റോ നോക്കാം ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത 3 ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകങ്ങളും ആക്റ്റീവ് ആണ് അതായത് അവയെല്ലാം ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളായി മാറുന്നു രസകരമായ കാര്യം ശ്രദ്ധിക്കുക 2 ഡിസിഷൻ വേരിയബിളുകൾ ഉണ്ടെന്ന് ഓർക്കുക അതിനാൽ ഓരോ ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ്യും അടിസ്ഥാനപരമായി ഒരു ലൈനിന്റെ ഒരു ഹാഫ് സ്പേസിനെ പ്രതിനിധീകരിക്കുന്നു അവ ആക്റ്റീവ് ആകുമ്പോൾ ഈ ഓരോ കൺസ്ട്രൈന്റുകളും ഒരു ഇക്വാളിറ്റി കൺസ്ട്രൈന്റുമായി മാറുന്നു അവ ഓരോന്നും രേഖയായി മാറുന്നു ഇപ്പോൾ 3 ഉം ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് 2 ഡയമെൻഷനിൽ 3 സമവാക്യങ്ങളുണ്ട് അതിനാൽ ഡിസിഷൻ വേരിയബിളുകൾ x1 ഉം x2 ഉം മാത്രമേ ഉള്ളൂ എന്നാൽ ആ 2 വേരിയബിളുകളിൽ എനിക്ക് 3 സമവാക്യങ്ങൾ ഉണ്ട് നമ്മളുടെ ലീനിയർ അൽജിബ്ര ലെക്ച്ചറുകളിൽ നിന്ന് നമുക്ക് അറിയാം നമുക്ക് പല സന്ദർഭങ്ങളിലും വേരിയബിളുകളേക്കാൾ കൂടുതൽ സമവാക്യങ്ങൾ ഉള്ളപ്പോൾ എല്ലാ 3 സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്തുന്ന 2 വേരിയബിളുകൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് മതിയായ സമവാക്യങ്ങൾ ഉണ്ടെങ്കിലും ഈ സമവാക്യങ്ങളുടെ ഒരു ഉപവിഭാഗം അതായത് 3 സമവാക്യങ്ങൾ 2 വേരിയബിളുകളിലാണ് എനിക്ക് സാധുവായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല ഇത് ജ്യാമിതീയമായി എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇവിടെ മറ്റു കണ്ടിഷനുകൾ നോക്കാം ഉദാഹരണത്തിന് ലൈൻ 5 തിരഞ്ഞെടുക്കാം നിങ്ങൾ ലൈൻ 5 നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെന്നും രണ്ടാമത്തെ കൺസ്ട്രൈൻറ് ഇനാക്ടീവ് ആമാണെന്നും മൂന്നാമത്തെ കൺസ്ട്രൈൻറ് ഇനാക്ടീവ് ആണെന്നും നമ്മൾ തിരഞ്ഞെടുത്തു അതായത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് കൺസ്ട്രൈൻറ് 0 ക്ക് തുല്യമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കൺസ്ട്രൈന്റുകൾ 0 ആയിരിക്കണം നമ്മൾ സൊല്യൂഷൻ പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ കേസിൽ ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ നമുക്ക് 5 സമവാക്യങ്ങളും 5 വേരിയബിളുകളും കണ്ടെത്താനാകും കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന x1 x2 എന്നിവയ്ക്കായി നമുക്ക് സോൾവ് ചെയ്യാനും ഇവിടെ കാണിച്ചിരിക്കുന്ന μ ന് സോൾവ് ചെയ്യാനും കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ സൊല്യൂഷൻ നോക്കിയാൽ എല്ലാം തൃപ്തികരമാണെന്ന് നിങ്ങൾ പറയും കാരണം എനിക്ക് x1 x2 എന്നിവയ്ക്കുള്ള സൊല്യൂഷൻ ഉണ്ട് എനിക്ക് μ1 μ2 μ3 ഉണ്ട് അവിടെ μ1 4 36 ഉം μ2 ഉം μ3 ഉം 0 യും ആണ് എന്നിരുന്നാലും നിങ്ങൾ ഈ μ നോക്കുമ്പോൾ μ കളിൽ ഒന്ന് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ കാണും രണ്ട് സ്ലൈഡുകളിൽ നമ്മൾ കാണിച്ച കണ്ടീഷൻകളെ അടിസ്ഥാനമാക്കി ഇത് ഒരു ഒപ്റ്റിമൽ പോയിന്റ് ആയിരിക്കില്ല എന്നാണ് ഇതിനർത്ഥം മാത്രമല്ല നിങ്ങൾ ഈ 2 മൂല്യങ്ങൾ കൺസ്ട്രെയിന്റിലേക്ക് ഇടുമ്പോൾ x13 27 ആയതിനാൽ അത് x1 1 എന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല നിങ്ങൾ ഈ റോ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ രണ്ടും തൃപ്തികരമല്ലെന്ന് തോന്നുന്നു ഈ μ പോസിറ്റീവ് ആണ് കൂടാതെ ഈ കൺസ്ട്രൈന്റും തൃപ്തികരമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട രസകരമായ ഒരു കാര്യം നമ്മൾ തിരികെ പോയി ഇനാക്ടീവ് ആണെന്ന് കരുതിയ കൺസ്ട്രൈന്റുകൾ മാത്രം പരിശോധിക്കേണ്ടതുണ്ട് കാരണം ആക്റ്റീവ് ആയ കൺസ്ട്രൈൻറ് ഇതിനകം 0 ആണ് അതിനാൽ എന്ത് സൊല്യൂഷനും വീണ്ടും ആക്റ്റീവ് ആയ കൺസ്ട്രൈന്റിനെ യാന്ത്രികമായി തൃപ്തിപ്പെടുത്തും ഉദാഹരണത്തിന് ലൈൻ 6 എന്ന് പറയട്ടെ ഇവിടെ ആദ്യത്തെ കൺസ്ട്രൈന്റ് ഇനാക്ടീവ് ആണെന്നും രണ്ടാമത്തെ കൺസ്ട്രൈൻറ് ആക്റ്റീവ് ആണെന്നും മൂന്നാമത്തെ കൺസ്ട്രൈൻറ് ഇനാക്ടീവ് ആണെന്നും നമ്മൾ തിരഞ്ഞെടുത്തു വീണ്ടും നമുക്ക് 5 സമവാക്യങ്ങളും 5 വേരിയബിളുകളും ലഭിക്കും നമ്മൾ ഇവിടെ സൊല്യൂഷൻ നോക്കും x വ്യൂ പോയിന്റിൽ നിന്ന് ഇത് വീണ്ടും നന്നായി കാണപ്പെടുന്നു x1 x2 1 21 1 51 എന്നിവയ്ക്കായി നമ്മൾ സോൾവ് ചെയ്യുന്നു ഈ കേസിൽ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി μ കൾ പോസിറ്റീവ് ആയിരിക്കേണ്ടതിനാൽ μ കളും നന്നായി കാണപ്പെട്ടു അതിനാൽ എനിക്ക് 0 മുതൽ 0 450 വരെ ഉണ്ട് അതിനാൽ ഇതുപോലെ തോന്നുന്നു ഇത് ഒരു ഒപ്റ്റിമൽ പോയിന്റിനുള്ള ഒരു നല്ല ക്യാൻഡിഡേറ് ആണ് എന്നാൽ നിങ്ങൾ ഇതെല്ലാം തൃപ്തിപ്പെടുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും പിന്നോട്ട് പോയി ഇവിടെയുള്ള ഈ സൊല്യൂഷൻ പോയിന്റ് ഇനാക്ടീവ് ആയ കൺസ്ട്രൈന്റുകൾ തൃപ്തികരമാണോ എന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ ഇനാക്ടീവ് ആയ കൺസ്ട്രൈന്റ് x1 എന്നത് 1 ന് തുല്യമായിരിക്കണം എന്നാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ 1 21 ഈ കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തുന്നില്ല അതിനാൽ ഇതും ഒപ്റ്റിമൽ ആയിരിക്കില്ല നിങ്ങൾ റോ 4 നോക്കുമ്പോൾ കൺസ്ട്രൈൻറ് 1 ഇനാക്ടീവ് ആമണെന്നും 2 ഉം 3 ഉം ആക്റ്റീവ് ആണെന്നും നമ്മൾ അനുമാനിച്ചപ്പോൾ എനിക്ക് ഒരു സൊല്യൂഷൻ x11 6 ലഭിക്കും എല്ലാ μ കളും പോസിറ്റീവ് ആകാൻ എനിക്ക് ലഭിക്കുന്നു ഇത് ഒരു ഒപ്റ്റിമൽ പോയിന്റിനുള്ള കണ്ടീഷൻകളിൽ ഒന്നാണ് തുടർന്ന് എനിക്ക് ഇവിടെ ഈ കൺസ്ട്രൈന്റ് പരിശോധിക്കേണ്ടതുണ്ട് കാരണം മറ്റ് 2 ആക്റ്റീവ് ആയ കൺസ്ട്രൈന്റുകളാണ് അവ നമുക്ക് സോൾവ് ചെയ്യാൻ സമവാക്യങ്ങൾ നൽകുന്നു അതിനാൽ അവ അങ്ങനെ സാധുവാകാൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ഈ 2 മൂല്യങ്ങൾ ആദ്യ കൺസ്ട്രൈൻറ്ൽ ഉൾപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇനീക്വാളിറ്റിയും തൃപ്തിപ്പെടുത്തുന്നുണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കും എല്ലാ കൺസ്ട്രൈന്റുകളും KKT കണ്ടീഷൻകളും തൃപ്തിപ്പെടുത്തുന്ന ഒരു കേസാണിത് ഇതാണ് ഒപ്റ്റിമൽ പോയിന്റ് അതിനാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ 1 6 ആണ് അതാണ് ഈ പ്രോബ്ളത്തിന്റെ ജ്യാമിതി ഉപയോഗിച്ച് സ്ലൈഡിൽ നമ്മൾ സൂചിപ്പിച്ചത് ഒപ്റ്റിമൽ എവിടെയാണ് ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഓരോ കേസും നോക്കാം ആക്റ്റീവ് ആകാൻ നമ്മൾ എല്ലാ കൺസ്ട്രൈന്റുകളും എടുത്ത കേസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 2 വേരിയബിളുകളും 3 സമവാക്യങ്ങളും ഉണ്ടെന്നും അത് പൊതുവായി തൃപ്തികരമല്ലെന്നും നമ്മൾ പറഞ്ഞു ജ്യാമിതീയമായി ഇത് അർത്ഥമാക്കുന്നത് എല്ലാ 3 റോകളിലും ഒരേ സമയം പോയിന്റ് കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം 3 റോകളും ആക്റ്റീവ് ആണെന്ന് നമ്മൾ കരുതുന്നു അതായത് അവയെല്ലാം 0 ന് തുല്യമായിരിക്കണം എല്ലാ 3 ലൈൻ സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്തുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ എനിക്ക് 2 തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ലഭിക്കും എന്നിരുന്നാലും അത് മറ്റ് കൺസ്ട്രൈന്റ്കളെ തൃപ്തിപ്പെടുത്തില്ല എല്ലാ 3 ലൈനുകളും ഇന്റർസെക്ട് ചെയ്യാത്ത സാഹചര്യം ഇതാണ് അതിനാൽ നമ്മൾക്ക് ഇവിടെ സൊല്യൂഷൻ ഇല്ല അതുപോലെ നിങ്ങൾക്ക് ഈ കേസുകളിൽ ഓരോന്നും നോക്കാം ഇവയിൽ ഓരോന്നിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ കേസ് 4 ൽ മാത്രമേ നിങ്ങൾക്ക് കുൻ ടക്കർ കണ്ടിഷനുകളിൽ നിന്ന് സൊല്യൂഷനും തൃപ്തികരമായ യഥാർത്ഥ ഒപ്റ്റിമൽ മൂല്യവും ലഭിക്കുകയുള്ളൂ മറ്റെല്ലാ കേസുകളിലും എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾ തിരികെ പോകുകയാണെങ്കിൽ നമ്മൾ കേസ് 5 ഉം 6 ഉം നോക്കിയതായി ഞാൻ കരുതുന്നു തുടർന്ന് കേസ് 5 ന്റെ സൊല്യൂഷൻ ഇതാണ് കേസ് 6 ന്റെ സൊല്യൂഷൻ ഇതാണ് കൂടാതെ ഇവ രണ്ടും നല്ല സൊല്യൂഷനുകളല്ല എന്നു നമ്മൾ പറഞ്ഞു കാരണം അവ x11 എന്ന കണ്ടീഷൻ ലംഘിക്കുന്നു അത് അടിസ്ഥാനപരമായി ഇവിടെ കാണുന്നു കാരണം x1 1 എന്ന ലൈനിന്റെ ഈ ഭാഗത്താണ് ഫീസിബിൾ റീജിയൻ എന്നാൽ ഈ പോയിന്റ് ഈ കൺസ്ട്രൈൻറ് ലംഘിക്കുന്നു ഇവിടെ വീണ്ടും ഈ പോയിന്റ് ഈ കൺസ്ട്രൈൻറ് ലംഘിക്കുന്നതായി നിങ്ങൾ കാണുന്നു ചുരുക്കത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യം അൺകൺസ്ട്രൈൻറ് കേസിൽ ഇത് വളരെ വ്യക്തമാണ് ഞാൻ ∇0 എന്നാണ് കണ്ടീഷൻ ആയി എഴുതുന്നത് എനിക്ക് മതിയായ സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടാകും അവിടെ n സമവാക്യങ്ങളും n വേരിയബിളുകളും ഉണ്ടാകും ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളുള്ള കേസിൽ എനിക്ക് സമാന n സമവാക്യങ്ങൾ ലഭിക്കും എന്നാൽ ഫോം അല്പം വ്യത്യസ്തമായിരിക്കും നമ്മൾ ഇങ്ങനെ എഴുതുന്നു ∇fλi ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ നിങ്ങൾക്ക് അധിക സമവാക്യം നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് മതിയായ സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടാകും ഇനീക്വാളിറ്റി കൺസ്ട്രയിന്റ് കേസിൽ ആദ്യത്തെ n സമവാക്യങ്ങൾ വളരെ സമാനമായ രൂപത്തിൽ നിന്നാണ് വരുന്നത് ∇fλi μi ആണ് അത് നിങ്ങൾക്ക് n സമവാക്യങ്ങൾ നൽകുകയും ഇക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകളുമായി ബന്ധപ്പെട്ട ഓരോ യോടും പൊരുത്തപ്പെടുകയും ചെയ്യുന്നു ഇക്വാളിറ്റികൾ തൃപ്തിപ്പെടുത്തേണ്ട നിരവധി സമവാക്യങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഈ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ ഉള്ളപ്പോൾ മാത്രമേ സങ്കീർണത ഉണ്ടാകൂ ഒന്നുകിൽ നിങ്ങൾക്ക് 1 ഉണ്ടെന്നറിയാം അല്ലെങ്കിൽ മറ്റൊന്ന് 0 ആയിരിക്കാം അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി സ്ലാക്ക്നസ് എന്ന് വിളിക്കുന്നത് അതിനാൽ നമുക്ക് ഈ μ ടൈംസ് g 0 ആയിരിക്കും g0 ആണെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് ആയ ഒരു കൺസ്ട്രൈന്റ് ആയി വിളിക്കുന്നു ഈ കേസിൽ നമ്മൾ അതിന് അനുയോജ്യമായ μ കണക്കാക്കണം ഒപ്പം ഒപ്റ്റിമൽ പോയിന്റിൽ μ0 ആയിരിക്കും ഈ എല്ലാ കൺസ്ട്രൈന്റുകളും അല്ലെങ്കിൽ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ എന്നോ എന്നോ ആയി എഴുതണോ കൂടാതെ യഥാർത്ഥ സമവാക്യം ∇f എന്നത് വലതുവശത്തെ തുകയ്ക്ക് തുല്യമാണോ അതോ ∇f എന്നത് വലതുവശത്തെ തുകയ്ക്ക് തുല്യമാണോ മുതലായവ നിങ്ങൾ എഴുതുന്ന ഫോമിനെ ആശ്രയിച്ചിരിക്കും വ്യത്യസ്ത പാഠപുസ്തകങ്ങളിലെയും വ്യത്യസ്ത പേപ്പറുകളിലെയും μ ന്റെ സൈൻ ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ അവ നെഗറ്റീവ് ആയിരിക്കണം നിങ്ങൾ അവ നോക്കുമ്പോൾ കണ്ടീഷൻകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം എന്നാൽ നിങ്ങൾ ഈ തരത്തിലുള്ള സമവാക്യങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ∇fλi μi എന്ന് തന്നെ എഴുതുന്നു കൂടാതെ നിങ്ങൾ എല്ലാ കൺസ്ട്രെന്റുകളും ഇനീക്വളിറ്റി കൺസ്ട്രെന്റുകൾ ആയി എഴുതുകയാണെങ്കിൽ μ കൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് നമ്മൾ ഇവിടെ കണ്ടത് s v m പോലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളിൽ ഈ അൺകൺസ്ട്രൈൻഡ് കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കോഴ്സിൽ നമ്മൾ ഇത് അത്ര തന്നെ ഉപയോഗിച്ചേക്കില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും സമ്പൂർണ്ണതയ്ക്കും മറ്റ് ഡാറ്റാ സയൻസ് അൽഗോരിതങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനം നൽകുന്നതിനുമായി ഈ കോഴ്സിന് പുറത്ത് പോയി നിങ്ങൾക്ക് ഇത് പഠിക്കാം നിങ്ങൾക്ക് ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇനീക്വാളിറ്റി കൺസ്ട്രൈയ്ന്റുകൾ ഉള്ളപ്പോൾ കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിന്റെ പിന്നിലെ പ്രധാന ആശയങ്ങളും ഞാൻ വിവരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കണ്ടിഷനുകൾ കാണിച്ചുതന്നപ്പോൾ ഈ കണ്ടീഷൻകളുടെ ഒരു പ്രൂഫോ ഔപചാരികമായ ഒരു ഡെറിവേഷനോ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കുക കേസുകൾ അങ്ങനെയാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയാൻ ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് കേസ് ഞാൻ അവബോധത്തോട് അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും ഇവയെല്ലാം ഔപചാരികമായി തെളിയിക്കാനും ഔപചാരിക ഗണിതശാസ്ത്ര വാദങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഈ കണ്ടിഷനുകൾ കണ്ടെത്താനും കഴിയും ഒപ്ടിമൈസേഷൻ ഫോർ ഡാറ്റ സയൻസ്നെക്കുറിച്ചുള്ള ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുന്നു ഡാറ്റാ സയൻസ് പ്രോബ്ലങ്ങൾ മനസിലാക്കാൻ ആവശ്യമായ എല്ലാ ടൂളുകളും ഇപ്പോൾ നമ്മളുടെ പക്കലുണ്ട് അടുത്ത സെറ്റ് ലെക്ചറുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത തരം ഡാറ്റാ സയൻസ് പ്രോബ്ലങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തലായിരിക്കും ഈ ഡാറ്റാ സയൻസ് പ്രോബ്ലങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു ഈ പ്രോബ്ലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഔപചാരികമായ ചിന്താഗതി ഉണ്ടോ പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാനാകും തുടർന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ ടൂൾ ആയ റിഗ്രഷനിലേക്ക് പോകും കൂടാതെ ഡാറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന വിവിധ ക്ലസ്റ്ററിംഗ് ടെക്നിക്കുകൾ നമ്മൾ നോക്കും തുടർന്ന് എഞ്ചിനീയർമാർക്ക് വളരെ ഉപയോഗപ്രദമായ പ്രിൻസിപ്പിൾ കംപോണന്റ് അനാലിസിസ് എന്ന ഒരു പ്രത്യേക ടെക്നിക്കോടെ നമ്മൾ അവസാനിപ്പിക്കും യഥാർത്ഥ ജീവിതത്തിലെ ഡാറ്റാ സയൻസ് പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതിന്റെ കൂടുതൽ പൊതുവായ ഉദാഹരണത്തോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ ലെക്ച്ചറുകൾ കാണുന്നത് തുടരുമെന്നും ഡാറ്റാ സയൻസിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു